Cloud Computing ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് Prof Soumya Kanti Ghosh Department of Computer Science and Engineering Indian Institute of Technology Kharagpur Lecture - 08 പ്രഭാഷണം - 08 XML Basics XML അടിസ്ഥാനം ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ നമുക്ക് ആവശ്യമാണ് ഒരു ഉപയോക്താവ് അല്ലെങ്കിൽ ഉപഭോക്താവ് അല്ലെങ്കിൽ ക്ലൌഡ് ഒന്ന് XML ആണ് അതിനാൽ XMLന്റെ അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ചചെയ്യും ഒന്നോ രണ്ടോ പ്രഭാഷണങ്ങൾ വേണ്ടിവന്നേക്കാം ഞാൻ മനസിലാക്കുന്നത് നിങ്ങളിൽ ഭൂരിഭാഗവും XML ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ XML എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ പരിചിതമല്ലാത്തവർക്കായി നമുക്ക് XMLന്റെ വളരെ അടിസ്ഥാനകാര്യങ്ങൾ ചർച്ചചെയ്യുകയും അതിന്റെ ഗുണവിശേഷതകൾ എന്താണെന്നും അത് എങ്ങനെ പരസ്പരം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുവെന്നും കാണാൻ ശ്രമിക്കാം അതിനാൽ നമ്മൾ XML നോക്കിയാൽ വളർന്നുവരുന്ന സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ XMLൽ ഉള്ള മറ്റ് സാങ്കേതികവിദ്യകളുടെ തരം എന്താണ് അതിനാൽ ഇത് എക്സ്റ്റൻസിബിൾ മാർക്ക്അപ്പ് ലാംഗ്വേജ് പരിവർത്തന ഭാഷയാണ് ഇന്ററോപ്പറേഷനുകൾ ഉണ്ട് XML ൽ നിങ്ങളുടെ സ്വന്തം ഘടകങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ടാഗുകൾ ഉണ്ടെങ്കിൽ ഇതിന് എല്ലാത്തരം XMLൽ സാർവത്രികവും കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ XML ന്റെ അടിസ്ഥാന സവിശേഷതകളാണ് ഇതിനെ സർവ്വവ്യാപിയാക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഇത് വായിക്കാനും പ്രോസസ്സ് ചെയ്യാനും കഴിയും അതിനാൽ നമ്മൾ വിഭവത്തിൽ നിന്ന് എടുക്കുന്നത് പോലുള്ള ഒരു ലളിതമായ ഉദാഹരണം നോക്കിയാൽ ഒരു XML ഡിക്ലറേഷൻ ഉണ്ട് കൂടാതെ വ്യത്യസ്ത ഘടകങ്ങളുടെയും തരങ്ങളുടെയും നിർവചനം ഇവിടെയുണ്ട് ഇവ വ്യത്യസ്ത XML ടാഗുകളാണ് അല്ലെങ്കിൽ വാക്യ വിഭാഗത്തിലാണ് ഞാൻ ഒരു ടാഗ് ഘടകങ്ങളും മറ്റ് കാര്യങ്ങളും നിർവചിക്കാൻ നമ്മളെ അനുവദിക്കുന്നു അതിനാൽ നമ്മൾ XML പ്രമാണം നോക്കുകയാണെങ്കിൽ അത് ശ്രേണിക്രമവും ഘടനാപരമായ വിവരവുമാണ് അതിനാൽ ഞാൻ ഈ പ്രമാണം നോക്കുകയാണെങ്കിൽ ഇതിന് പാർട്ട് ഓർഡർ സൃഷ്ടിക്കുന്നുവെന്നും ഇത് പറയുന്നു അതിനാൽ ശ്രേണിപരമായ ഘടനാപരമായ വിവരങ്ങൾ XML ൻറെ പ്രോപ്പർട്ടിയാണ് ഇത് XML ട്രീ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാൻ കഴിയുന്നു അതിനാൽ വീണ്ടും നമ്മുടെ അടിസ്ഥാന പരിസരത്തേക്കോ അടിസ്ഥാന നിർവചനത്തിലേക്കോ വന്നാൽ അത് HTML പോലെ ലളിതമാണ് പക്ഷേ അത്ര ലളിതമല്ല HTML വളരെ വാനില വിപുലീകരിക്കാൻ കഴിയും എന്നാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എൻവിയോൺമെൻറിനായി സൃഷ്ടിക്കുകയും ചെയ്യാം 2 റിപ്പോസിറ്ററികളിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള വിതരണം ചെയ്ത വൈവിധ്യമാർന്ന ഡാറ്റ തരങ്ങൾ ഒരുമിച്ച് ചേർത്തതാണ് ഇത് XML ഡാറ്റ ചെയ്യാമെന്നതാണ് ഇപ്പോൾ മറ്റൊരു കാര്യം അതിനാൽ ഇത് ഒരു ട്രീയുടെ ഘടനയാണ് HTML ൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഉപയോക്താവ് നിർവചിച്ച കാര്യങ്ങളൊന്നുമില്ല അതിനാൽ വാക്യഘടന മാത്രമല്ല അവ നിർവചിക്കപ്പെട്ട ഘടകങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇവിടെ ഈ സാഹചര്യത്തിൽ ഘടകങ്ങളുടെ എണ്ണം എന്താണെന്ന് ഞാൻ ആദ്യം കണ്ടെത്തേണ്ടതുണ്ട് അവയിൽ ഏതാണ് ഉപയോക്താവ് നിർവചിച്ചിരിക്കുന്നത് അവ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യാം അതിനാൽ ഇതിനായി ഞാൻ ആദ്യം XML ഡാറ്റയിൽ നമ്മൾ ഇത് ചെയ്യുന്നത് അതിനാൽ XML പാഴ്സർ പ്രോസസ്സിംഗ് മോഡൽ ചെയ്യുന്നു അതിനാൽ XML ഡാറ്റ ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ അത് വെൽ ഫോർമ്ഡ് ആകട്ടെ ഇപ്പോൾ ഈ ടേബിൾ എന്ന് വിളിക്കുന്നു അതിനാൽ ആദ്യം നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് പ്രമാണ തരമാണ് ഇപ്പോൾ പ്രമാണ തരത്തെ അടിസ്ഥാനമാക്കി ബാക്കി ഡാറ്റ ഒരു XML ആണെന്ന് പറയുന്നു അതിനാൽ XML ഡാറ്റ

അതിനാൽ നമുക്ക് XML പാഴ്സർ XML ഇക്കാര്യത്തിലും ശരിയായിരിക്കണം എന്റിറ്റി റഫറൻസിന്റെ കൊടുക്കുന്നതിന് മുമ്പ് പ്രത്യേക പ്രമാണത്തെ സാധൂകരിക്കുന്നു അതിനാൽ XML പ്രോസസ്സിംഗിൽ തിരിച്ചറിയുകയും അവ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പാഴ്സർ വീണ്ടെടുക്കുന്നു മറ്റൊന്ന് അത് കണ്ടെത്താൻ കഴിയുമ്പോൾ അവഗണിക്കുന്നു അതിനാൽ ഈ പാഴ്സറുകൾക്കുള്ള നിയമം എന്താണ് അതിനാൽ അതനുസരിച്ച് നമുക്ക് 2 തരം XML പാഴ്സർ തരം അടിസ്ഥാനമാക്കിയുള്ളതാണ്

അതിനാൽ XML ഡാറ്റ ഇവ നൽകുന്നു പ്രത്യേക പ്രശ്നങ്ങൾ പ്രതീകങ്ങൾ പ്രതീക സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് XML ചില സംവിധാനങ്ങൾ നൽകുന്നു ഭാഷയെ ഞാൻ എങ്ങനെ നിർവചിക്കും നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് ഒരു XML പ്രമാണം എങ്ങനെ നിർവചിക്കാം അടിസ്ഥാനപരമായി പരസ്പരം എങ്ങനെ സംവദിക്കാം സേവനാധിഷ്ഠിത ആർക്കിടെക്ചർ സന്ദേശമയയ്ക്കൽ ആയിരിക്കാം SOAP WSDL UDDI പോലെ എല്ലാം അടിസ്ഥാനപരമായി XML പ്രമാണങ്ങളാണ് അതിനാൽ ആ XML ഡോക്യുമെൻറ് കൈകാര്യം ചെയ്യുന്നത് കൈകോർത്തുപോകുന്നു അതിനാൽ ഡയലക്റ്റ് സ്പെസിഫിക്കേഷൻ ആണ് അതിനാൽ വാലിഡ് വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു പക്ഷേ ഘടന ഇവിടെ നിർവചിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു അദ്വിതീയ സ്വത്താക്കി മാറ്റുന്നു രണ്ട് ഓർഗനൈസേഷൻ A B ഉള്ളപ്പോഴെല്ലാം വിവരങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അവർ അന്വേഷിക്കുന്നത് ഒന്നാമതായി ഇത് ആ എക്സ്ചേഞ്ച് പ്രോട്ടോക്കോളിന്റെ കരാർ ഉണ്ടായിരിക്കണം ആ തീയതിക്കായി ആ ആവശ്യത്തിനായി ഒരു ഡാറ്റയും ഇതുപോലെയാണ് ഇത് മറ്റേതെങ്കിലും ഓർഗനൈസേഷനുമായി DTD യേക്കാൾ ശക്തമാണ് അവ ഘടന നിലനിർത്തുക മാത്രമല്ല വ്യത്യസ്ത തരം കാര്യങ്ങൾക്കും ഉപയോഗിക്കാം

സ്കീമ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ പ്രമാണങ്ങളുടെ ഭാഗമായി നിങ്ങൾ DTD ഉദാഹരണം നോക്കുകയാണെങ്കിൽ അതിനാൽ പ്രമാണ തരം ഉണ്ട് ഘടകങ്ങൾ കൈമാറുന്നു മറ്റ് ചില തരം ഘടകങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ XML ഫയലിനെയോ കാര്യത്തിൽ ഇത് XML പ്രമാണമായി പ്രതിനിധീകരിക്കുന്നു ഒരു ഫുഡ് ഓർഗ് വരുന്നതെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ മറ്റേ അറ്റത്ത് എനിക്ക് ബാഹ്യ DTD ചെയ്യാനും അവിടെ എന്ത് തരം ഡാറ്റയാണെന്ന്

നന്ദി